എല്ലാവർക്കും സുപ്രഭാതം അതിനാൽ നിങ്ങൾ ഗ്യാസ് ടർബൈൻ സൈക്കിളുകളെക്കുറിച്ച് സംസാരിക്കുന്ന ആറാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ഇന്നലത്തെ പ്രഭാഷണത്തിനിടെ ഓപ്പൺ സൈക്കിൾ അധിഷ്ഠിതവും അടച്ച സൈക്കിൾ അധിഷ്ഠിതവുമായ ഗ്യാസ് ടർബൈനുകൾ എന്ന ഗ്യാസ് ടർബൈൻ എന്ന ആശയം നിങ്ങളെ പരിചയപ്പെടുത്തി ഗ്യാസ് ടർബൈനിനുള്ള അനുയോജ്യമായ ചക്രത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അത് ബ്രൈടൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ ആണ് നമ്മൾ സംസാരിച്ച മറ്റ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകളുമായി സാമ്യമുള്ളതായി നമ്മൾ എവിടെയാണ് കണ്ടത് ഓട്ടോ അല്ലെങ്കിൽ ഡീസൽ സൈക്കിൾ പോലെ ഇവിടെ നിങ്ങൾക്ക് നാല് പ്രക്രിയകളുണ്ട് അവയിൽ രണ്ടെണ്ണം ഐസന്റ്രോപിക് ആണ്പ്രക്രിയ ഒരു ഐസന്റ്രോപിക് കംപ്രഷനും മറ്റൊരു ഐസന്റ്രോപിക് വിപുലീകരണ പ്രക്രിയയും എന്നിരുന്നാലും ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും രണ്ടും നിരന്തരമായ സമ്മർദ്ദത്തിലാണ് നടക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ ഈ ബ്രെയ്ട്ടൺ എന്നിവ തമ്മിൽ ഒരു സാമ്യത വരയ്ക്കാം ചക്രം ഈ മൂന്നിലും നമുക്ക് നാല് പ്രക്രിയകളുണ്ട് നമ്മൾക്ക് ഒരു ഐസന്റ്രോപിക് കംപ്രഷനും ഒരു ഐസന്റ്രോപിക് വിപുലീകരണ പ്രക്രിയ അവയുടെ വ്യത്യാസം ചൂട് കൂട്ടിച്ചേർക്കലിന്റെയും താപത്തിന്റെയും രീതിയിലാണ് നിരസിക്കൽ ഓട്ടോ സൈക്കിളിന്റെ കാര്യത്തിൽ താപ സങ്കലനം സ്ഥിരമായ അളവിൽ ഉള്ളതുപോലെ സ്ഥിരമായ സമ്മർദ്ദത്തിലാണ് ഡീസൽ സൈക്കിളിന്റെയും ബ്രൈറ്റൺ സൈക്കിളിന്റെയും അതേസമയം ചൂട് നിരസിക്കൽ സ്ഥിരമായ അളവിലാണ് ഓട്ടോ ഡീസൽ സൈക്കിളുകളിൽ ബ്രൈടൺ സൈക്കിളിന്റെ കാര്യത്തിൽ ഇത് നിരന്തരമായ സമ്മർദ്ദത്തിലാണ് അതിനാൽ ഈ രീതിയിൽ ഈ മൂന്ന് സൈക്കിളുകളും ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇത് അനുയോജ്യമായ ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് ഇത് നമ്മൾ ഗണിതശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന രീതിയാണ് എന്നിരുന്നാലും ഒരു പ്രധാന വ്യത്യാസമുണ്ട് കാരണം ബ്രൈറ്റൺ ചക്രം വാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോട്ടറി മെഷിനറികളിൽ പ്രവർത്തിക്കുന്ന ടർബൈനുകൾ അവയുമായി ബന്ധപ്പെട്ടവ പരസ്പരം പ്രതികരിക്കുന്നതിലല്ല എസ്ഐ സിഐ എഞ്ചിനുകൾക്കൊപ്പം അതായത് ഓട്ടോ ഡീസൽ സൈക്കിളുകൾ അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ചക്രത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ റോട്ടറി ഉപകരണങ്ങൾക്ക് അനുയോജ്യമായ ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ അവയെല്ലാം ഞാൻ സൂചിപ്പിച്ച പ്രക്രിയകൾ നാല് വ്യത്യസ്ത ഘടകങ്ങളിലായാണ് നടത്തുന്നത് അതിനാൽ നമ്മൾ ഒരു കംപ്രസ്സറിൽ കംപ്രഷൻ പ്രക്രിയ നടത്തി തുടർന്ന് ചൂട് ചേർക്കൽ നടത്തുന്നു ഒരു ജ്വലനത്തിനുള്ളിൽ അല്ലെങ്കിൽ അടച്ച സൈക്കിളിലെ ഒരു ചൂട് എക്സ്ചേഞ്ചറിനുള്ളിൽ അപ്പോൾ നമ്മൾക്ക് ഒരു ടർബൈൻ ഉണ്ട് വിപുലീകരണം നടത്തുക തുടർന്ന് സിസ്റ്റം പ്രാരംഭ ഭാഗത്തേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് മറ്റൊരു ചൂട് ഉണ്ട് എക്സ്ചേഞ്ചർ കുറഞ്ഞ താപനില സിങ്കിലേക്ക് ചൂട് നിരസിക്കാൻ സഹായിക്കുന്നു അതിനാൽ നാല് ഉണ്ട് ഘടകങ്ങൾ അവ ഓരോന്നും പ്രത്യേക ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ പിണ്ഡമുള്ള സിസ്റ്റം ആയി മാതൃകയാക്കാം ഒരൊറ്റ വരവ് ഒറ്റ ഒഴുക്ക് എന്നിവയിൽ നിന്ന് പിണ്ഡം ഒഴുകുന്നു ഈ നാലിൽ ഓരോന്നിനും വ്യക്തിഗത വിശകലനം സംയോജിപ്പിച്ചാൽ നമുക്ക് മൊത്തം ചക്രം ലഭിക്കും പ്രകടനം നമ്മൾ ഇന്നലെ ഇതിനകം ചെയ്തു നമ്മൾ കംപ്രസ്സർ കണക്കാക്കി വർക്ക് ടർബൈൻ വർക്ക് അവിടെ നിന്നുള്ള ചൂട് ഇൻപുട്ട് താപ output ട്ട്പുട്ട് എന്നിവ നമ്മൾക്ക് ഒരു എക്സ്പ്രഷൻ ലഭിച്ചു കാര്യക്ഷമതയ്ക്കായി | ഓട്ടോ സൈക്കിളിന്റെ പ്രധാന പാരാമീറ്റർ പോലെ നമ്മൾ അവിടെ കണ്ടു കംപ്രഷൻ അനുപാതമായിരുന്നു ഇത് കംപ്രഷന് മുമ്പുള്ള വോളിയം അനുപാതമാണ് കംപ്രഷനുശേഷം വോളിയം ഇവിടെ നമുക്ക് ഒരു മർദ്ദം അനുപാതമുണ്ട് അത് ഒരു സമ്മർദ്ദ അനുപാതമാണ് പേര് സൂചിപ്പിക്കുന്നത് സമ്മർദ്ദമാണ് കംപ്രഷന് മുമ്പുള്ള സമ്മർദ്ദത്തിലേക്ക് കംപ്രഷന് ശേഷം അതിനാൽ കംപ്രഷനുമായി ഒരു വ്യത്യാസമുണ്ട് അനുപാതം കംപ്രഷൻ അനുപാതത്തിൽ കംപ്രഷന് മുമ്പുള്ള വോളിയം അതിനുശേഷം വോളിയം കൊണ്ട് ഹരിക്കുന്നു കംപ്രഷൻ ഇവിടെ സമ്മർദ്ദ അനുപാതത്തിൽ സമ്മർദ്ദത്താൽ കംപ്രഷനുശേഷം നമ്മൾക്ക് സമ്മർദ്ദമുണ്ട് കംപ്രഷന് മുമ്പ് നിങ്ങൾക്ക് യുക്തിസഹമായി ചിന്തിക്കാനും കഴിയും കാരണം അവ രണ്ടും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അവ ഒന്നിനേക്കാൾ വലുതാണ് അതിനാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവരുടെ നിർവചനങ്ങൾ തിരിച്ചറിയാൻ കഴിയും സമ്മർദ്ദമായി അനുപാതം വർദ്ധിക്കുന്നു താപ കാര്യക്ഷമതയും വർദ്ധിക്കുന്നു എന്നിരുന്നാലും വർക്ക് output ട്ട്പുട്ട് സൂക്ഷിക്കാനിടയില്ല തുടർച്ചയായി വർദ്ധിക്കുന്നതിനുപകരം മിനിമം നിശ്ചയിച്ചുകഴിഞ്ഞാൽ പരമാവധി സൈക്കിൾ താപനില ഒരു ഒപ്റ്റിമൽ പ്രഷർ റേഷ്യോ ഉണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞു അവസാന ക്ലാസ് തുടർന്ന് ചില പ്രായോഗിക വശങ്ങൾ ഐസെൻട്രോപിക് എന്ന ആശയം ഉൾപ്പെടുത്തി നമ്മൾ സ്പർശിച്ച കംപ്രസ്സറിന്റെയും ടർബൈനിന്റെയും കാര്യക്ഷമത അതിനാൽ ഇന്ന് നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്ന ഒരു സംഖ്യാ ഉദാഹരണത്തിൽ നിന്ന് ആരംഭിക്കും ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ ആശയം എന്നാൽ അതിനുമുമ്പ് യഥാർത്ഥ സൈക്കിൾ ഗ്രാഫുകൾ പരിശോധിക്കുക സൈക്കിൾ കാര്യക്ഷമതയുടെ വ്യത്യാസമാണിത് സമ്മർദ്ദ അനുപാതത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്ന എയർ സ്റ്റാൻഡേർഡ് ആണ് ഡോട്ട്ഡ് ലൈൻ ഇന്നലെ ചെയ്തു കാരണം ബ്രൈറ്റൺ സൈക്കിളിന്റെ താപ ദക്ഷത ഇതാണ് എവിടെ k എന്നത് നിർദ്ദിഷ്ട താപത്തിന്റെ അനുപാതമാണ് നമ്മൾ k 1 4 എടുക്കുകയാണെങ്കിൽ ഈ പ്രത്യേക വരി നമുക്ക് ലഭിക്കും 4 എന്നത് വായുവിന്റെ ഒരു സാധാരണ മൂല്യമാണ് സാധാരണ അന്തരീക്ഷത്തിൽ എന്നിരുന്നാലും പരമാവധി സൈക്കിൾ താപനില യഥാർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അത്തരം ലഭിക്കുന്നില്ല മാറ്റം വരുത്തുക സൈക്കിൾ കാര്യക്ഷമത ഒരു നിശ്ചിത ലെവൽ വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത് വളരെ കുറയുന്നു പ്രധാനമായും ഈ പ്രത്യേക വക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും തീർച്ചയായും സമ്മർദ്ദ അനുപാതം ഈ ഒപ്റ്റിമൽ സൈക്കിൾ കാര്യക്ഷമതയുമായി പൊരുത്തപ്പെടുന്നു അത് ഉയർന്ന തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു താപനില പക്ഷേ ഇപ്പോഴും ഒരുതരം ഒപ്റ്റിമൽ ഉണ്ട് നമ്മൾ ഇതിനകം തന്നെ ഇത് ചർച്ചചെയ്തത് കാണാൻ കഴിയുന്ന അതേ കാര്യം ഇത് പവർ ട്ട്പുട്ടിനുള്ളതാണ് നിർദ്ദിഷ്ട പവർ എന്നത് മൊത്തം output ട്ട്പുട്ട് അല്ലാതെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്കിനാൽ വിഭജിക്കപ്പെടുന്നു w കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അതിനാൽ അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിറ്റ് കിലോയ്ക്ക് കിലോ ജൂൾ ആകാം അല്ലെങ്കിൽ അത് പോലെ തന്നെ കിലോ വാട്ടിനെ സെക്കൻഡിൽ കിലോഗ്രാം കൊണ്ട് ഹരിക്കുന്നു ഇത് പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് അതിനാൽ നിർദ്ദിഷ്ട പവർ എന്നത് യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റിലെ വർക്ക് output ട്ട്പുട്ട് നിരക്ക് മാത്രമാണ് അതിനാൽ ഇവിടെയും അനുബന്ധമായ സമ്മർദ്ദ അനുപാതം ഉണ്ടാകുമെന്ന് നമുക്കറിയാം പരമാവധി ഔട്ട്പുട്ട് അത് പരമാവധി താപനിലയുടെ പ്രവർത്തനമാണ് എന്നാൽ രസകരമായി കാര്യക്ഷമതയ്ക്കും പവർ output ഔട്ട്പുട്ടിനുമുള്ള ഒപ്റ്റിമൽ പ്രഷർ റേഷ്യോയുടെ സ്ഥാനം സമാനമല്ല മറിച്ച് അവ വ്യത്യസ്തമാണ് അതിനാൽ നമ്മൾ ഒരുതരം ഒപ്റ്റിമൈസേഷനായി പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ട്രേഡ് ഓഫ് കാരണം ഒരേസമയം നൽകാൻ പോകുന്ന സമ്മർദ്ദ അനുപാതം തിരിച്ചറിയാൻ കഴിയില്ല ഉയർന്ന ദക്ഷതയും ഉയർന്ന ഊർജ്ജ ഉൽപാദനവും അതിനാൽ അവയിലൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കണംആവശ്യകത ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ ഫലമായി നമുക്ക് എന്താണുള്ളതെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഒരു വാതകം ഉണ്ട് ടർബൈൻ 10 ന്റെ മർദ്ദ അനുപാതവും പരമാവധി താപനില 700 0 സി യും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു കംപ്രസ്സറിനും ടർബൈനിനുമുള്ള ഐസന്റ്രോപിക് കാര്യക്ഷമത നൽകിയിട്ടുണ്ട് അവ ഈ കേസിൽ പ്രത്യേകമാണ് 15 കിലോ സെ എന്ന നിരക്കിൽ 15 0 സിയിൽ എയർ കംപ്രസ്സറിൽ പ്രവേശിക്കുന്നു അതിനാൽ നിങ്ങൾ പവർ ട്ട്പുട്ട് കണക്കാക്കുന്നു അതിനാൽ ഇതാണ് സാധാരണ ചക്രം ഇവിടെ 1 എന്നത് കംപ്രഷൻ 2s a സൂചിപ്പിക്കുന്നതിന് മുമ്പുള്ള പോയിന്റാണ് പോയിന്റ് ഐസന്റ്രോപിക് കംപ്രഷൻ ഉണ്ടായിരുന്നെങ്കിലും മാറ്റാനാവാത്തതിനാൽ വലതുവശത്തേക്ക് പോയിന്റ് നമ്പർ 2 ലേക്ക് മാറുന്നു ഇവിടെ അക്ഷങ്ങൾ കാണുന്നില്ല അത് താപനിലയാണ് ലംബ അക്ഷം അത് എൻട്രോപ്പിയാണ് അതുപോലെ ടർബൈനിനും ഒരു പ്രദർശനവും മാറ്റാനാവാത്തതുമാണ് വിപുലീകരണം ഇത് ഒരു അനുയോജ്യമായ വിപുലീകരണ ഐസന്റ്രോപിക് വിപുലീകരണമായിരുന്നെങ്കിൽ അത് പോയിന്റിലെത്തുമായിരുന്നു 4 സെ എന്നാൽ മാറ്റാനാവാത്തതിനാൽ ഈ സമയത്ത് എൻട്രോപ്പി ജനറേഷൻ ഉണ്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാൽ അത് വലത് മുതൽ പോയിന്റ് നമ്പർ 4 ലേക്ക് മാറ്റാൻ പോകുന്നു ചൂടിലെ ഏതെങ്കിലും മർദ്ദം നമ്മൾ അവഗണിക്കുകയാണെന്ന് ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നു എക്സ്ചേഞ്ചറുകൾ അതിനാൽ 2 മുതൽ 3 വരെയും 4 മുതൽ 1 വരെയും അവർ നിരന്തരമായ മർദ്ദം പിന്തുടരുന്നു അവ സ്ഥിരമാണ് സമ്മർദ്ദ പ്രക്രിയകൾ ഇത് നമ്മൾ ചെയ്യുന്ന ചില ലളിതവൽക്കരണമാണ് കാരണം നമ്മൾ ഇപ്പോൾ നോക്കുന്നു ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ മാത്രം ഫലം പരിശോധിക്കുക ഒപ്പം cp ഉം n ഉം കംപ്രഷൻ പ്രക്രിയയും വിപുലീകരണ പ്രക്രിയയും അവ വേറിട്ടതാണ് കാരണം ഇത് യുക്തിസഹമാണ് കംപ്രഷൻ പ്രക്രിയയിൽ ഇത് പൊതുവെ വായു മാത്രമാണ് കംപ്രസ്സുചെയ്യുന്നു അതേസമയം വിപുലീകരണ പ്രക്രിയയിൽ ജ്വലന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു വിപുലപ്പെടുത്തി അതിനാൽ അവയുടെ സ്വഭാവസവിശേഷതകൾ അവയുടെ സ്വഭാവസവിശേഷതകൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ നമ്മൾക്ക് വ്യത്യസ്തത ഉണ്ടാകാം ഗുണവിശേഷതകളുടെ മൂല്യങ്ങൾ അതിനാൽ ഇവിടെ നമ്മൾ n സൂചിപ്പിച്ചതുപോലെ ഇത് ഐസന്റ്രോപിക് പ്രക്രിയയല്ല പകരം നമ്മൾ ഇതിനെ ഒരു പോളിട്രോപിക് പ്രക്രിയയായി പരിഗണിക്കും അതിനാൽ ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ നിർവചനം ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കാം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം താപനില അല്ലെങ്കിൽ എന്ത് വിവരങ്ങളുണ്ട് അതിനാൽ അറിയപ്പെടുന്ന വിവരങ്ങളാണ് ഇവ അതിനാൽ നമുക്ക് 1 മുതൽ 2 വരെ പ്രക്രിയ അല്ലെങ്കിൽ ആദ്യം 1 മുതൽ 2 സെ വരെ നോക്കാം അതിനാൽ 1 ടു 2 സെ ഒരു ഐസെൻട്രോപിക് പ്രക്രിയയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ അവിടെ നമുക്ക് എല്ലായ്പ്പോഴും എഴുതാം അതിനാൽ ഇവിടെ ഇത് ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള ബന്ധത്തെ പിന്തുടരുന്നു ഈ പ്രത്യേക പ്രക്രിയയെക്കുറിച്ച് ഇത് ബന്ധത്തെ പിന്തുടരുന്നു ഇതിനെക്കുറിച്ചും സമാനമാണ് എന്നിരുന്നാലും n മൂല്യങ്ങൾ വ്യത്യസ്തമാണ് അതിനാൽ ഇത് നമ്മളുടെ പക്കലുണ്ട് ടി 2 സെ 556 കെ അതിനാൽ കംപ്രഷൻ പ്രക്രിയ ഐസെൻട്രോപിക് ആയിരുന്നെങ്കിൽ ഇത് ഒരു താപനിലയാകുമായിരുന്നു കംപ്രഷന്റെ അവസാനം എന്നാൽ ഇത് ഐസന്റ്രോപിക് അല്ല അതിനാൽ ഇതിന്റെ നിർവചനം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഐസന്റ്രോപിക് കാര്യക്ഷമത അതിനാൽ ഇവിടെയുള്ള താപനിലയുടെ കാര്യത്തിൽ മാത്രം ഐസന്റ്രോപിക് കാര്യക്ഷമതയുമായി ഇത് ഒരു ബന്ധം നൽകുന്നു മുൻപേ അറിയാം 1 150𝐶 നമ്മൾ ഇപ്പോൾ കണക്കാക്കിയ T2s അതിനാൽ അവിടെ നിന്ന് 614 8 ആയി വരുന്ന T2a കണക്കാക്കാം കെ അതിനാൽ യഥാർത്ഥ താപനില നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പോയിന്റ് നമ്പർ 4 കണക്കാക്കണം അതുപോലെ 3 മുതൽ 4 വരെയുള്ള പ്രക്രിയയാണ് നമ്മൾ ആദ്യം പിന്തുടരുന്നത് അതിനാൽ നമ്മൾ അത് പിന്തുടരുന്നു എല്ലായ്പ്പോഴും കേവലിൽ എസ്ഐ യൂണിറ്റുകളോ താപനിലയോ ഇടുക കാരണം നിങ്ങൾ കേവലമായതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് താപനില അതിനാൽ T4s 547 4 K ആയി വരുന്നു നിങ്ങൾ ഈ കണക്കുകൂട്ടലുകളെല്ലാം സ്വയം ചെയ്യുക ഈ സംഖ്യകളുടെ കൃത്യത പരിശോധിക്കുന്നതിന് ഇവ ഏകദേശ സംഖ്യകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ടർബൈൻ ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ നിർവചനം ഉപയോഗിച്ച് അതിനാൽ ഈ വിപുലീകരണ പ്രക്രിയയുടെ അവസാനത്തിൽ നമുക്ക് T4a യഥാർത്ഥ താപനിലയിൽ ലഭിക്കുന്നു ടി 4 എ 611 2 കെൽവിൻ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇവിടെ ഈ സിപിയും വ്യത്യസ്തമാണ് കാരണം നമുക്ക് സിപി ബാറിൽ ഇടാം സിപി ബാർ ഇതാണ് അതേസമയം സിപി ഈ പ്രത്യേക കാര്യമാണ് സമാനമായി n ബാർ 1 333 അതിനാൽ കംപ്രഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപിക് പ്രോസസ്സിനായി കംപ്രഷനും വിപുലീകരണവും നിർദ്ദിഷ്ട താപത്തിന്റെ വ്യാപ്തിയും പോളിട്രോപിക് കോഫിഫിഷ്യന്റുകളും വ്യത്യസ്തമാണ് അല്ലെങ്കിൽ പോളിട്രോപിക് സൂചിക നിങ്ങൾ കണക്കുകൂട്ടൽ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നാല് പോയിന്റുകളിലെയും താപനില നമുക്കറിയാം അതിനാൽ അനുബന്ധ ജോലികളെല്ലാം കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ നിങ്ങളുടെ നിർദ്ദിഷ്ട കംപ്രഷൻ വർക്ക് ആവശ്യകത എത്രയായിരിക്കും അതിനാൽ നിങ്ങൾക്ക് രണ്ടും പ്രത്യേകം കണക്കാക്കാം ഒരിക്കൽ നിങ്ങൾ അവയെ സംയോജിപ്പിച്ചുകഴിഞ്ഞാൽ 𝑤𝑛𝑒𝑡 𝑤𝑡 − 𝑤𝑐 നെറ്റ് പവർ ഔട്ട്പുട്ട് തുല്യമായിരിക്കണം 𝑤𝑛𝑒̇ 𝑡 𝑚̇ 𝑤𝑛𝑒𝑡 എല്ലാ അക്കങ്ങളും നൽകിയുകഴിഞ്ഞാൽ നെറ്റ് പവർ ഔട്ട്പുട്ട് ഇതായിരിക്കും 1 098 ഇത് കണക്കാക്കുമ്പോൾ വീണ്ടും ഓർക്കുക നിങ്ങൾ cp 1 005 ന് തുല്യമായി ഇടേണ്ടതാണ് ഇത് കണക്കാക്കുമ്പോൾ നിങ്ങൾ cp ബാർ ഇടേണ്ടത് 1 11 ന് തുല്യമാണ് അതിനാൽ ഐസൻട്രോപിക് കാര്യക്ഷമത ഉപയോഗിച്ച് ഈ രീതിയിൽ നമ്മൾക്ക് ജോലി ആവശ്യകത കണക്കാക്കാം നമ്മൾ ഒരേ പ്രശ്നം പരിഹരിച്ചാൽ തീർച്ചയായും ഒരു മാറ്റമുണ്ട് ബോത്തോ കംപ്രഷനും വിപുലീകരണ പ്രക്രിയയും ഐസന്റ്രോപിക് ആണെന്ന് കരുതി അതേ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതായത് ശരിയായ പോയിന്റുകളിൽ 2 സെ 4 സെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് മൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് കാണുക തീർച്ചയായും ഇവിടെ കാര്യക്ഷമത കണക്കാക്കാൻ നമ്മൾക്ക് കഴിയില്ല നൽകിയിരിക്കുന്ന മൊത്തം താപ ഇൻപുട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം താപ ദക്ഷത നെറ്റ് വർക്ക് ഔട്ട്പുട്ടിന് തുല്യമായിരിക്കണം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് mdot T2 T3 എന്നിവ അറിയാം എന്നാൽ ഈ ജ്വലന പ്രക്രിയയുമായി ബന്ധപ്പെട്ട സിപിയെ നമ്മൾക്കറിയില്ല അതിനാൽ ചൂട് കൂട്ടിച്ചേർക്കൽ പ്രക്രിയയിൽ നിർദ്ദിഷ്ട താപത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ചൂട് കൂട്ടിച്ചേർക്കലിനിടെ ചേർത്ത താപത്തിന്റെ അളവ് നിങ്ങൾക്ക് കണക്കാക്കാം തുടർന്ന് നിങ്ങൾക്ക് കാര്യക്ഷമതയും ലഭിക്കും എന്നാൽ ഈ പ്രശ്നത്തിൽ ഇതിന്റെ എക്സ്പ്രഷനോ മാഗ്നിറ്റ്യൂഡോ നൽകാത്തതിനാൽ താപ ദക്ഷത ലഭിക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ ബാക്ക് വർക്ക് റേഷ്യോയും ഈ പ്രശ്നത്തിൽ ഒരു പ്രധാന ഭാഗമാകുമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു ബാക്ക് വർക്ക് റേഷ്യോ പ്രതിനിധീകരിക്കുന്നു എഴുതിയത് പലപ്പോഴും വർക്ക് റേഷ്യോ എന്നറിയപ്പെടുന്നു അനുപാതം ഇതാണ് അതിനാൽ നമ്മൾ നെറ്റ്വർക്കിനായി എക്സ്പ്രഷൻ ഇടുകയാണെങ്കിൽ അത് ഇതായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നമ്പറുകൾ നൽകിയിട്ടില്ല നിങ്ങൾക്ക് കംപ്രസ്സർ നിർദ്ദിഷ്ട കംപ്രഷൻ ജോലിയും നിർദ്ദിഷ്ട വിപുലീകരണവും അവിടെ നിന്ന് നിങ്ങൾക്ക് ബാക്ക് വർക്ക് റേഷ്യോ വർക്ക് അനുപാതമോ എളുപ്പത്തിൽ ലഭിക്കും നമ്മൾ ഇന്നലെ ഒരു പ്രശ്നം പരിഹരിച്ചതായി നിങ്ങൾക്ക് കാണാനാകുമെന്ന് നമ്മൾക്കറിയാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ബാക്ക് വർക്ക് റേഷ്യോ വളരെ പ്രാധാന്യമർഹിക്കുന്നു ഇത് 40 മുതൽ 50 വരെയാകാം അതിനാൽ ഉൽപാദിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ ഒരു പ്രധാന ഭാഗം ടർബൈൻ ഉപയോഗിച്ച് കംപ്രസ്സറിൽ ഉപയോഗിക്കും അതിനാൽ ഒരേ ഷാഫ്റ്റിൽ കംപ്രസ്സറും ടർബൈനും മ mount ണ്ട് ചെയ്യുന്നതിനുപകരം ടർബൈൻ രണ്ട് ഘടകങ്ങളായി വിഭജിക്കുന്നു ആദ്യത്തേത് എച്ച്പിടി അല്ലെങ്കിൽ ഹൈ പ്രഷർ ടർബൈൻ എന്ന് വിളിക്കപ്പെടുന്നു ഇത് കംപ്രസ്സറിൽ ഒരേ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജ്വലന അറയിൽ നിന്ന് നേരിട്ട് ഇൻപുട്ട് സ്വീകരിക്കുന്നു അതേസമയം ഉയർന്ന മർദ്ദമുള്ള ടർബൈനിൽ നിന്നുള്ള എക്സ്ഹോസ്റ്റ് എൽപി ടർബൈനിലെ ലോ പ്രഷർ ടർബൈനിലേക്ക് വിതരണം ചെയ്യുന്നു അതിനുള്ള വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് ജനറേറ്ററിൽ ഘടിപ്പിച്ചിരിക്കുന്നതും ഇതാണ് ഇത് ഒരു Ts പ്രാതിനിധ്യം ആകാം അതിനാൽ ഇവിടെ ഈ 3 4 ഈ പ്രത്യേക പ്രക്രിയ ഉയർന്ന മർദ്ദം ടർബൈനിന്റെ വികാസവുമായി യോജിക്കുന്നു കൂടാതെ 4 5 ലോ പ്രഷർ ടർബൈനിന്റെ വിപുലീകരണവുമാണ് ഇവിടെ ഉയർന്ന മർദ്ദമുള്ള ടർബൈനിലെ വർക്ക് output ട്ട്പുട്ട് മോഡുലേറ്റ് ചെയ്യുന്നു ഇത് കംപ്രസ്സറിന് ആവശ്യമായ വർക്ക് ഇൻപുട്ടിനോട് കൃത്യമായി പൊരുത്തപ്പെടുന്നു അതിനാൽ കംപ്രസ്സറിന് ആവശ്യമായ വർക്ക് ഇൻപുട്ട് നിർദ്ദിഷ്ട ജോലികൾക്ക് തുല്യമായിരിക്കണം ഉയർന്ന മർദ്ദമുള്ള ടർബൈൻ നിർമ്മിക്കുന്ന ജോലി ഇതിന് തുല്യമായിരിക്കണം ഇപ്പോൾ ഇവ രണ്ടും പരസ്പരം തുല്യമായിരിക്കണം അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന നെറ്റ്വർക്ക് output ട്ട്പുട്ട് രണ്ടാമത്തെ ടർബൈൻ ഉൽപാദിപ്പിക്കുന്ന ലോ പ്രഷർ ടർബൈൻ ഉൽപാദിപ്പിക്കുന്നതിന് തുല്യമാണ് ഇത് കണക്കാക്കാം അതിനാൽ കംപ്രസ്സർ വർക്ക് ആവശ്യകത മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ടർബൈൻ ലഭിക്കുന്നതിന് ചിലപ്പോൾ നമ്മൾ ഒരു പവർ ടർബൈൻ ഉപയോഗിക്കാം കൂടാതെ മറ്റ് ടർബൈനുകൾ ജനറേറ്ററുമായി ചേർത്ത് നമ്മൾ തിരയുന്ന വാണിജ്യ power ട്ട്പുട്ട് നൽകുന്നു മുമ്പത്തെ പ്രശ്നത്തിൽ നമ്മൾ പ്രത്യേക സിപി മൂല്യങ്ങൾ ഉപയോഗിച്ച ഈ സിപി മൂല്യങ്ങൾ കംപ്രഷൻ പ്രോസസ്സ് പോലെ ഇവിടെ ബാധകമാണ് ഉയർന്ന മർദ്ദമുള്ള ടർബൈൻ ലോ പ്രഷർ ടർബൈൻ എന്നിവ വാതകത്തിന് സിപിയാണ് അവയുടെ മൂല്യങ്ങളും വ്യത്യസ്തമായിരിക്കും കാരണം പ്രത്യേക താപം താപനിലയുടെ ശക്തമായ പ്രവർത്തനമാണെന്ന് നമുക്കറിയാം Ts ഡയഗ്രാമിൽ നിന്ന് കാണാൻ കഴിയുന്നതുപോലെ ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദം ടർബൈൻ പ്രവർത്തിക്കുന്നു അതിനാൽ താഴ്ന്ന മർദ്ദമുള്ള ടർബൈനിലെ വാതകത്തിനുള്ള സിപിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ സിപി കൂടുതലാകാം ഉയർന്ന മർദ്ദം ലോപ്രഷർ ടർബൈനുകൾ എന്നിവയുടെ അതേ ആശയം ഉപയോഗിക്കുന്നതിന് നമുക്ക് മറ്റൊരു സംഖ്യാ പ്രശ്നം പരിഹരിക്കാം അതിനാൽ ഇവിടെ നമുക്ക് ഒരു ഗ്യാസ് ടർബൈൻ ഉണ്ട് അത് 70 0 സി 1 01 ബാറിൽ വായു സ്വീകരിക്കുന്നു ഡയഗ്രം കാണിച്ചിരിക്കുന്നു അതിനാൽ ഡയഗ്രാമിൽ പോയിന്റ് നമ്പർ 1 കാണുന്നില്ല അതിനാൽ ഇത് നിങ്ങളുടെ പോയിന്റ് നമ്പർ 1 ആയതിനാൽ നമ്മൾക്ക് ഉണ്ട് 𝜂𝑐 0 83 മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ ഒരു പ്രത്യേക പവർ ഷാഫ്റ്റിൽ എൽപി ടർബൈൻ ഘടിപ്പിച്ചിരിക്കുന്ന എച്ച്പി ടർബൈൻ ആണ് ഇത് നയിക്കുന്നത് എൽപി ടർബൈനിലെ എച്ച്പി ടർബൈനിന്റെ കംപ്രസ്സറിന്റെ ഐസന്റ്രോപിക് കാര്യക്ഷമത നൽകിയിരിക്കുന്നു അതിനാൽ നമ്മൾക്ക് പരമാവധി സൈക്കിൾ താപനില 650 0C ആയിരിക്കണം പരമാവധി സൈക്കിൾ താപനില Ts ഡയഗ്രാമിൽ നിന്ന് വ്യക്തമായി കാണുന്ന T3 പോയിന്റുമായി യോജിക്കുന്നു അതിനാൽ നിങ്ങളുടെ T3 6500𝐶 ഇപ്പോൾ നമ്മൾ യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് വർക്ക് റേഷ്യോയുടെ പവർ output ട്ട്പുട്ടും ചൂട് എക്സ്ചേഞ്ചറുകളിലെ മർദ്ദം കുറയുന്നതിനെ അവഗണിക്കുന്ന സൈക്കിൾ കാര്യക്ഷമതയും വീണ്ടും കണക്കാക്കേണ്ടതുണ്ട് രണ്ട് ഘട്ടങ്ങളിലും cp n എന്നിവ വിപുലീകരണവും ജ്വലനത്തിനുള്ള സിപിയും അവ തന്നെയാണ് അതിനാൽ നിങ്ങൾ ആദ്യം എല്ലാ പോയിന്റുകളിലും താപനില കണക്കാക്കണം അതിനാൽ മുമ്പത്തെ വ്യായാമത്തിന് സമാനമായ ചില പ്രക്രിയകൾ നമ്മൾ പിന്തുടരും അതിനാൽ ഞാൻ കുറച്ച് വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കും അതിനാൽ നമ്മൾ ആദ്യം 1 മുതൽ 2 സെ വരെ പ്രക്രിയ പിന്തുടരുന്നു ഇവിടെ സമ്മർദ്ദങ്ങൾ കാണിച്ചിട്ടില്ല ഇത് P1 ആണെന്നും ഈ സമ്മർദ്ദ നില P2 ആണെന്നും ഈ സമ്മർദ്ദ നില ചില ഇന്റർമീഡിയറ്റ് P3 ആണെന്നും പറയാം അതിനാൽ അവിടെ നിന്ന് നമ്മൾ നേടാൻ പോകുന്നു 𝑇2𝑠 525 𝐾 കംപ്രസ്സർ കാര്യക്ഷമതയുടെ നിർവ്വചനം നമ്മൾ ഉപയോഗിക്കുന്നു ഇത് കംപ്രസ്സറിന് അനുയോജ്യമായ വർക്ക് ആവശ്യകതയുടെ അനുപാതമാണ് ഇത് യഥാർത്ഥ വർക്ക് ആവശ്യകതയുമായി വരും അവിടെ നിന്ന് നമുക്ക് ലഭിക്കും T2𝑎 584 അതിനാൽ ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ കംപ്രഷൻ പ്രക്രിയയുടെ നിർദ്ദിഷ്ട ജോലി ആവശ്യകത ഇതായിരിക്കണമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയും 𝑤𝑐 𝑐𝑝 𝑐 𝑇2 − 𝑇1 295 5 𝑘𝐽𝑘𝑔 അതിനാൽ കംപ്രസ്സർ വർക്ക് ആവശ്യകത അല്ലെങ്കിൽ നിർദ്ദിഷ്ട കംപ്രഷൻ വർക്ക് ആവശ്യകത നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മൾ ടർബൈൻ ഭാഗത്തേക്ക് മാറണം എച്ച്പി ടർബൈനിനും എൽപി ടർബൈനിനുമായി ഐസന്റ്രോപിക് വിപുലീകരണം എന്ന ആശയം വീണ്ടും സമാനമായി ഉപയോഗിക്കുക എന്നാൽ അതിനുമുമ്പ് നമ്മൾ കണക്കാക്കിയ കംപ്രസ്സറിന് ആവശ്യമായ വർക്ക് ഇൻപുട്ട് എന്താണെന്ന് നോക്കുക അത് എച്ച്പി ടർബൈൻ നൽകേണ്ടതുണ്ട് കാരണം വിപുലീകരണത്തിന്റെ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങൾ ഉണ്ടായിരിക്കണമെന്ന മുഴുവൻ ആശയവും അതാണ് സമം അതിനാൽ 650 0 സിക്ക് തുല്യമായി നൽകിയിട്ടുള്ള ടി 3 നമുക്കറിയാം അത് കെൽവിനിലേക്ക് പരിവർത്തനം ചെയ്യണം ഞാൻ ഇവിടെ ചെയ്യുന്നില്ല പക്ഷേ ടി 3 യെ കേവല താപനിലയിലേക്ക് പരിവർത്തനം ചെയ്യുക അവിടെ നിന്ന് നമ്മൾ നേടാൻ പോകുന്നു എച്ച്പി ടർബൈനിന്റെ ഐസന്റ്രോപിക് കാര്യക്ഷമത ഇപ്പോൾ നമുക്കറിയാം അത് ഉപയോഗിച്ച് നമുക്ക് ടി 4 കളും കണക്കാക്കാം പക്ഷേ അത് ഇപ്പോൾ ആവശ്യമില്ല അതിനാൽ കംപ്രഷൻ വർക്ക് നമ്മൾക്കറിയാം കംപ്രഷൻ വർക്കിന്റെ തുല്യതയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു എച്ച്പി ടർബൈൻ വർക്ക് നമ്മൾക്ക് താപനില T4 ലഭിച്ചു അതിനാൽ ഇപ്പോൾ എൽപി ടർബൈനിലേക്ക് നോക്കുക പക്ഷേ എൽപി ടർബൈനിലേക്ക് പോകുന്നതിനുമുമ്പ് എൽപി ഘട്ടങ്ങളിൽ എന്താണുള്ളതെന്ന് നോക്കുക നമ്മൾക്ക് ഒരു ഐസന്റ്രോപിക് കാര്യക്ഷമത 0 83 ഉണ്ട് മറ്റ് മൂല്യങ്ങളും നൽകിയിരിക്കുന്നു അതിനാൽ അതിനുമുമ്പ് യഥാർത്ഥത്തിൽ ടി 4 എന്നത് നമുക്ക് ടി 4 എസ് ആവശ്യമില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ള ചിലത് ഉണ്ട് കാരണം പി 3 ഇന്റർമീഡിയറ്റ് മർദ്ദം അറിയില്ല അത് ടി 4 എസിന്റെ മൂല്യത്തിൽ നിന്ന് മാത്രമേ നേടാനാകൂ അതിനാൽ എച്ച്പി ടർബൈനിനുള്ള ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ നിർവചനം നമ്മൾ ഉപയോഗിക്കുന്നു ഇത് അനുയോജ്യമായ വർക്ക് output ട്ട്പുട്ടിന്റെ യഥാർത്ഥ വർക്ക് output ട്ട്പുട്ടിന് തുല്യമായിരിക്കണം അത് നിങ്ങൾക്ക് നൽകുന്നു T4𝑠 620 5𝐾 അതിനാൽ ഇപ്പോൾ ടി 4 കൾ അവിടെ നിന്ന് നമുക്കറിയാം ടി 3 അല്ലെങ്കിൽ 3 മുതൽ 4 വരെ ഒരു ഐസന്റ്രോപിക് ആണെന്ന് നമ്മൾ പരിഗണിക്കണം പ്രോസസ്സ് ചെയ്യുക വിപുലീകരണ പ്രക്രിയകളുമായി പൊരുത്തപ്പെടുന്ന ഒന്നാണ് n ബാർ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ പി 2 ലഭിക്കും അതിനാൽ P2 8 08 അവിടെ നിന്ന് നമുക്ക് ലഭിക്കും P3 1 65 ഈ പ്രത്യേക തലത്തിലുള്ള പി 3 ലെ സമ്മർദ്ദം ഇപ്പോൾ നമുക്കറിയാം അതിനാൽ അവിടെ നിന്ന് 4 പോയിന്റിലെ താപനിലയെക്കുറിച്ച് നമുക്കറിയാം സമ്മർദ്ദം P3 P1 എന്നിവ നമുക്കറിയാം അതിനാൽ അവിടെ നിന്ന് മുമ്പത്തെ നടപടിക്രമങ്ങൾ പാലിച്ച് ആദ്യം T5s ലഭിക്കും അതിനാൽഅവിടെ നമ്മൾ പോകാൻ പോകുന്നു T5𝑠 588 എൽപി ടർബൈനിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾ വിശദീകരണം ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് എൽപി ടർബൈൻ നിർമ്മിക്കുന്ന യഥാർത്ഥ സൃഷ്ടിയാണ് എന്തുകൊണ്ടാണ് എൽപി ടർബൈൻ നിർമ്മിക്കുന്നത് ഡയഗ്രം നോക്കൂ യഥാർത്ഥ ജോലി T4 ആനുപാതികമായിരിക്കണം −T5 അനുയോജ്യമായ ജോലി T4 ന് ആനുപാതികമായിരിക്കണംഅതിനാൽ ഇപ്പോൾ നമ്മൾക്ക് കംപ്രസ്സർ നിർദ്ദിഷ്ട വർക്ക് ആവശ്യമുള്ള ജോലി ഉണ്ട് എച്ച്പി ടർബൈൻ നിർമ്മിക്കുന്ന വർക്ക് കംപ്രഷൻ ജോലിക്കും എൽപി ടർബൈൻ നിർമ്മിക്കുന്ന ജോലിക്കും തുല്യമായിരിക്കണം അതിനാൽ നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് ബാക്ക് വർക്ക് റേഷ്യോ നേടുന്നതുപോലെ നമുക്ക് ആവശ്യമുള്ളത് കണക്കാക്കാം അതിനാൽ ബാക്ക് വർക്ക് അനുപാതം ഇതിന് തുല്യമായിരിക്കും അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ബാക്ക് വർക്ക് റേഷ്യോ 0 201 ലേക്ക് ലഭിക്കും താപ ദക്ഷത ഇതിന് തുല്യമായിരിക്കണം നമ്മൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ലാത്ത ഒന്നാണ് ഇപ്പോൾ ക്വിൻ അതിനാൽ നമുക്ക് എങ്ങനെ ക്വിൻ ലഭിക്കും ക്വിൻ പ്രോസസ് 2 3 ആയ താപ സങ്കലന പ്രക്രിയയുമായി യോജിക്കുന്നു ഈ ജ്വലന പ്രക്രിയയിൽ സിപി 1 15 ആണെന്നും പോയിന്റ് 3 2 ലെ താപനില നമ്മൾക്കറിയാം അതിനാൽ അത് തുല്യമായിരിക്കണം ലേക്ക് 𝑐 𝑇3 𝑇2𝑎 അതിനാൽ നിങ്ങൾക്ക് ഈ കേസിൽ താപ ദക്ഷത എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയുന്ന താപ സങ്കലനം 19 1 പോലെയാകും അതിനാൽ നമ്മൾ അന്വേഷിച്ച രണ്ട് ഫലങ്ങളാണിവ നമ്മൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പരിശോധിക്കുക യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് വർക്ക് റേഷ്യോ സൈക്കിൾ കാര്യക്ഷമത എന്നിവയ്ക്കുള്ള പവർ output ട്ട്പുട്ട് തിരിച്ചറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ പവർ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് ബാക്ക് വർക്ക് റേഷ്യോയും നമ്മൾ കണക്കാക്കിയ സൈക്കിൾ കാര്യക്ഷമതയുമുള്ള ഒരു പവർ ഔട്ട്പുട്ടായിരിക്കും അനുപാതം ലഭിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല 𝑟𝑤 1 𝑟𝑏𝑤 0 799 ബാക്ക് വർക്ക് റേഷ്യോ അല്ലെങ്കിൽ വർക്ക് റേഷ്യോ ഇവയിലേതെങ്കിലും സൌകര്യപ്രദമായി ഉപയോഗിക്കുന്നു പക്ഷേ സാധാരണയായി ഇത് കൂടുതൽ ജനപ്രിയമാണ് അതിനാൽ ഈ രീതിയിൽ നമ്മൾക്ക് രണ്ട് വ്യത്യസ്ത ടർബൈനുകൾ ഉപയോഗിക്കാം കണക്കുകൂട്ടൽ വളരെ ദൈർഘ്യമേറിയതാണ് എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഐസന്റ്രോപിക് കാര്യക്ഷമത ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഐസന്റ്രോപിക് പ്രക്രിയയ്ക്കായി താപനിലയും മർദ്ദവും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധം നമ്മൾ ഉപയോഗപ്പെടുത്തണം അതുവഴി യഥാർത്ഥവും അനുയോജ്യവുമായ പ്രകടനം തിരിച്ചറിയാൻ കഴിയും ഇനി നമുക്ക് അടിസ്ഥാന ചക്രത്തിലെ പരിഷ്കരണങ്ങളിലേക്ക് പോകാം ബാക്ക് വർക്ക് അനുപാതം വളരെ പ്രാധാന്യമർഹിക്കുന്നതായി നമ്മൾ കണ്ടു തീർച്ചയായും ഈ സാഹചര്യത്തിൽ ബാക്ക് വർക്ക് അനുപാതം ചെറുതാണെങ്കിലും പ്രായോഗിക സന്ദർഭങ്ങളിൽ ബാക്ക് വർക്ക് അനുപാതം 40 50 60 വരെയാകാം അതിനാൽ അടിസ്ഥാന ചക്രത്തിൽ നമ്മൾ ചിലതരം പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുവഴി നമ്മൾക്ക് ജോലി അനുപാതം വർദ്ധിപ്പിക്കാനോ കംപ്രസ്സർ വർക്ക് ആവശ്യകത കുറയ്ക്കാനോ കഴിയും ഇതിനായി ചരിത്രപരമായി ഗ്യാസ് ടർബൈൻ സൈക്കിളുകളിലോ അനുയോജ്യമായ ബ്രൈറ്റൺ സൈക്കിളുകളിലോ നിരവധി മാറ്റങ്ങൾ വരുത്തി ഇന്റർകൂളിംഗിനൊപ്പം മൾട്ടിസ്റ്റേജ് കംപ്രഷൻ റീഹീറ്റിംഗിനൊപ്പം മൾട്ടിസ്റ്റേജ് വിപുലീകരണം എക്സ്ഹോസ്റ്റ് വാതകം ഉപയോഗിച്ച് പുനരുജ്ജീവനത്തിന്റെ ഉപയോഗം എന്നിവയാണ് ഏറ്റവും സാധാരണമായ മൂന്ന് പരിഷ്കാരങ്ങൾ ഇപ്പോൾ കംപ്രഷൻ പ്രക്രിയയിൽ കംപ്രസ്സറിനുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഒരു ഐസന്റ്രോപിക് കംപ്രസ്സറിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ നിയമം പിന്തുടർന്ന് ടിഡിഎസ് ബന്ധം നൽകുന്ന ഒന്ന് ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം 𝑇𝑑𝑆 𝑑ℎ − 𝑣𝑑𝑃 ഇപ്പോൾ നമ്മൾ ഇത് ഒരു ഐസന്റ്രോപിക് കംപ്രഷൻ അല്ലെങ്കിൽ വിപുലീകരണ പ്രക്രിയയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഐസന്റ്രോപിക് സ്വഭാവം കാരണം ds എന്നത് 0 ന് തുല്യമാണ് 𝑑ℎ 𝑣𝑑𝑃 ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിന്റെ രൂപത്തെക്കുറിച്ച് ചിന്തിക്കുക ഇന്നലെ 1 മുതൽ 2 വരെ ഒരു പ്രക്രിയയ്ക്കായി നമ്മൾക്ക് എന്താണുള്ളത് ℎ1 − ℎ2 𝑞𝑖𝑛 𝑤𝑜𝑢𝑡 അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ 𝑑ℎ 𝛿𝑞𝑖𝑛 𝛿𝑤𝑜𝑢𝑡 ഇപ്പോൾ കംപ്രഷൻ പ്രക്രിയയ്ക്കായി കംപ്രഷൻ വികാസത്തിന്റെ ഐസന്റ്രോപിക് സ്വഭാവം കാരണം ഇത് നിലവിലില്ല അതിനാൽ dh ഉം ഔട്ട്പുട്ട് ജോലിയും തമ്മിൽ നമ്മൾക്ക് നേരിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ കംപ്രഷൻ പ്രോസസ്സിനായി നിങ്ങളുടെ output ട്ട്പുട്ട് വർക്ക് തുല്യമാണ് Wc കാരണം എന്ത് ഇൻപുട്ട് ആവശ്യമാണ് അതേസമയം വിപുലീകരണ പ്രക്രിയയിൽ നമ്മളുടെ പക്കലുള്ള വിപുലീകരണ പ്രക്രിയയും ഔട്ട്പുട്ടും അതിനാൽ ഇത് നിങ്ങളുടെ Wt ന് തുല്യമാണ് അതിനാൽ ഇത് താരതമ്യം ചെയ്താൽ കംപ്രഷൻ പ്രക്രിയയ്ക്കായി നമുക്കുള്ളത് അതിനാൽ ഈ രണ്ടിലും നമുക്ക് കാണാൻ കഴിയും കംപ്രസ്സറിന് ആവശ്യമായ വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ടർബൈൻ നിർമ്മിക്കുന്ന വർക്ക് അവ വർക്കിംഗ് മീഡിയത്തിന്റെ ഒരു പ്രത്യേക വോളിയത്തിന് നേരിട്ട് ആനുപാതികമാണ് അതിനാൽ നമ്മൾക്ക് ഒരു കംപ്രസ്സറിന് വേണ്ടതും ടർബൈനിനായി ആവശ്യമുള്ളതും ഒരു കംപ്രസ്സറിനായി ഇൻപുട്ട് ആവശ്യകത ചെറുതും ചെറുതും ആയി നിലനിർത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ മീഡിയത്തിന്റെ നിർദ്ദിഷ്ട വോളിയം ചെറുതായിരിക്കണം ഒരു ടർബൈനിന്റെ കാര്യത്തിൽ നമുക്ക് കഴിയുന്നത്ര ഔട്ട്പുട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർദ്ദിഷ്ട വോള്യവും വലുതായിരിക്കണം അതിനാൽ കംപ്രഷൻ ഘട്ടത്തിനായി നിർദ്ദിഷ്ട വോളിയം ചെറുതായി നിലനിർത്താനും വിപുലീകരണ ഘട്ടത്തിനായി നിർദ്ദിഷ്ട വോളിയം വലുതായി നിലനിർത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ കംപ്രഷൻ സമയത്ത് ഒരു ദ്രാവകം ഉപയോഗിക്കുകയാണെങ്കിൽ അത് സാധ്യമായ ഏറ്റവും മികച്ച പരിഹാരമാണ് കാരണം നിർദ്ദിഷ്ട വോളിയം വളരെ ചെറുതാണ് അതാണ് നീരാവി അടിസ്ഥാനമാക്കിയുള്ള ചക്രത്തിൽ ചെയ്യുന്നത് അത് അടുത്ത ആഴ്ച നമ്മൾ സംസാരിക്കും എന്നിരുന്നാലും നമ്മൾ ഒരു ഗ്യാസ് ടർബൈനിൽ ജോലിചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന മാധ്യമം ഗ്യാസ് ആണ് അപ്പോൾ ഈ താപനില കുറച്ചുകൊണ്ട് മാത്രമേ വാതകത്തിന്റെ അളവ് ചെറിയ മൂല്യത്തിലേക്ക് നിലനിർത്താൻ കഴിയൂ ഇന്റർകൂളിംഗിനൊപ്പം ഈ മൾട്ടിസ്റ്റേജ് കംപ്രഷന്റെ ആശയം അതാണ് ഇവിടെ നമ്മൾ കംപ്രഷനെ പല ഘട്ടങ്ങളായി വിഭജിക്കുന്നു തുടർച്ചയായ രണ്ട് ഘട്ടങ്ങൾക്കിടയിൽ നമ്മൾ വാതകത്തെ തണുപ്പിക്കുന്നു അങ്ങനെ താപനില കുറയുകയും അതുവഴി ഈ വോള്യം കുറയുകയും ചെയ്യുന്നു അതിനാൽ മൊത്തം കംപ്രഷൻ വർക്ക് ആവശ്യകത കുറയ്ക്കാൻ നമ്മൾക്ക് കഴിയും അതുപോലെ ടർബൈനിൽ പ്രവർത്തന മാധ്യമത്തിന്റെ നിർദ്ദിഷ്ട വോളിയം കഴിയുന്നത്ര വലുതായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ വിപുലീകരണ ഘട്ടത്തെ ടർബൈനിന്റെ പല ഘട്ടങ്ങളായി വിഭജിക്കുകയും ഓരോ ഘട്ടങ്ങൾക്കിടയിലും ഉയർന്ന താപനിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നു അതിനാൽ നിർദ്ദിഷ്ട വോളിയം വീണ്ടും വർദ്ധിക്കുന്നതിനാൽ അടുത്ത ഘട്ടത്തിൽ നിന്ന് ഉയർന്ന വർക്ക് ഔട്ട്പുട്ട് നേടാനാകും മൾട്ടിസ്റ്റേജ് കംപ്രഷനും മൾട്ടിസ്റ്റേജ് വിപുലീകരണവും എന്ന ആശയം ഇതാണ് പുനരുജ്ജീവിപ്പിക്കൽ എന്നത് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കംപ്രഷനിലും വിപുലീകരണത്തിലുമാണ് ഈ മൂന്ന് പരിഷ്ക്കരണങ്ങളുമുള്ള നമ്മളുടെ സാധാരണ ഗ്യാസ് ടർബൈൻ സൈക്കിളിന്റെ ഒരു ഡയഗ്രമാണ് ഇത് ഇത് നോക്കൂ ഇവിടെ വായു കംപ്രസ്സർ 1 ൽ പ്രവേശിച്ച് ഘട്ടം 2 ആയി പുറത്തുവരുന്നു തുടർന്ന് നമുക്ക് ഒരു ഇന്റർകൂളർ ഉണ്ട് അവിടെ ചൂട് വായു നിരസിക്കുന്നു അതിനാൽ അതിന്റെ താപനില കുറയുന്നു അതിനാൽ പോയിന്റ് 3 ലെ താപനില പോയിന്റ് 2 ലെ താപനിലയേക്കാൾ കുറവാണ് അതിനാൽ കംപ്രഷൻ ഘട്ടത്തിൽ 2 തിയോ വർക്ക് ഇൻപുട്ടിന് താപനില കുറയുന്നതിനാൽ കുറവുണ്ടാകേണ്ടതുണ്ട് അതിനാൽ ഇത് താപനില 4 ൽ പുറത്തുവരുന്നു അതിനുശേഷം ഒരു പുനരുജ്ജീവനമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല അതിനാൽ ജ്വലനം 6 ആം ഘട്ടത്തിൽ പുറത്തുവന്ന് ടർബൈൻ 1 ലെ ഏഴാം ഘട്ടത്തിലേക്ക് വികസിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ജ്വലന അറയുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഒരു റീഹീറ്റർ ഉണ്ട് അവിടെ ഉയർന്ന താപനിലയിലേക്ക് വീണ്ടും ചൂടാക്കുന്നു അതായത് 0 8 ലെ താപനില 7 ലെ താപനിലയേക്കാൾ വലുതാണ് അതനുസരിച്ച് നിർദ്ദിഷ്ട വോള്യവും വലുതായിരിക്കും അതിനാൽ ടർബൈൻ ഘട്ടം 2 ൽ നിന്ന് നമ്മൾക്ക് ഉയർന്ന വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു അതിനാൽ ഇന്റർകൂളിംഗിനൊപ്പം മൾട്ടിസ്റ്റേജ് കംപ്രഷൻ എന്ന ആദ്യ ആശയം നമുക്ക് പര്യവേക്ഷണം ചെയ്യാം മർദ്ദം P1 മുതൽ മർദ്ദം P2 വരെ വാതകം കംപ്രസ്സുചെയ്യാൻ നോക്കുന്ന ഒരു കംപ്രസ്സറിനായി ഇവിടെ ഡയഗ്രം കാണിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു പോളിട്രോപിക് പ്രക്രിയയെ പിന്തുടരുകയാണെങ്കിൽ ഒരൊറ്റ സ്റ്റേജ് കംപ്രഷൻ നമ്മൾ പോയിന്റ് 1 മുതൽ ആരംഭിക്കുകയും പോയിന്റ് സിയിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഈ കംപ്രഷൻ ഒന്നിലധികം ഘട്ടങ്ങളായി വിഭജിക്കുക എന്നതാണ് നമ്മളുടെ ആശയം നമുക്ക് രണ്ട് ഘട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം പോകുന്നു അത് തണുപ്പിക്കാൻ ഈ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ നമ്മൾ ഐസോതെർമൽ രീതിയിൽ പിന്തുടരുകയാണെങ്കിൽ അത് നമ്മൾക്ക് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ട് ആവശ്യകതയാണ് അവരുടെ ആവിഷ്കാരങ്ങളിൽ നിന്നും ഇത് തെളിയിക്കാനാകും പോയിന്റ് 1 മുതൽ ആരംഭിച്ച ഒരു ഐസോതെർമൽ പ്രക്രിയയായിരുന്നെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലും പൂർത്തിയാകും ഞാൻ മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങുകയാണ് ഈ വർക്ക് ഇൻപുട്ട് ആവശ്യകത ∫vdP ആണെങ്കിൽ അത് ഡയഗ്രാമിൽ എന്താണ് പ്രതിനിധീകരിക്കുന്നത് നമ്മൾ വരയ്ക്കുന്ന അതേ പിവി ഡയഗ്രം എന്നാൽ വർക്ക് ഇൻപുട്ട് ആവശ്യകത ഇതുപോലുള്ള ഒരു പ്രൊജക്ഷൻ അല്ല കാരണം നമ്മൾ ∫Pdv യെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ശരിയാണ് ഇവിടെ നമ്മൾ ∫vdP യെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് വർക്ക് ഇൻപുട്ടിന്റെ ആവശ്യകത നൽകാൻ പോകുന്ന v അക്ഷത്തിൽ പ്രൊജക്ഷൻ ഇതാണ് അതിനാൽ പോളിട്രോപിക് കേസിനായി നമ്മൾ സി പോയിന്റിൽ അവസാനിക്കുന്നു ഐസോതെർമലിനായി നിങ്ങൾ ഇവിടെ അവസാനിക്കുന്നത് വർക്ക് ഇൻപുട്ട് ആവശ്യകതയുടെ വളരെ കുറവാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് ഇന്റർകൂളിംഗ് ചെയ്യുന്നത് നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് വികസിപ്പിക്കുകയാണ് തുടർന്ന് നമ്മൾ ഇന്റർകൂളിംഗ് ചെയ്യുന്നു അതിനാൽ താപനില പ്രാരംഭ താപനിലയിലേക്ക് മടങ്ങുന്നു ഇവിടെ ഈ ആശയം അനുസരിച്ച് ടിബി ടി 1 ന് തുല്യമാണ് നമുക്ക് ഇത് ലഭിക്കുമ്പോൾ ഇതിനെ ഒരു തികഞ്ഞ ഇന്റർകൂളിംഗ് എന്ന് വിളിക്കുന്നു നമുക്ക് കഴിയുന്നത്ര അടുത്ത് പോകാൻ ശ്രമിക്കുന്നതിനെ ടി 1 വരെ ടിബി കുറയ്ക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം പോയിന്റ് ബി മുതൽ പോയിന്റ് ഡി വരെ കംപ്രഷന്റെ രണ്ടാം ഘട്ടം നമ്മൾക്ക് ഉണ്ട് ഈ ഇന്റർകൂളിംഗിന്റെ ഫലമായി സംരക്ഷിച്ച ജോലിയെ പ്രതിനിധീകരിക്കുന്ന ഷേഡുള്ള ഏരിയ പിങ്ക് നിറത്തിൽ കാണാം അതിനാൽ input ദ്യോഗിക ഇൻപുട്ട് ആവശ്യകതയെക്കുറിച്ചോ ജോലി ലാഭിക്കുന്നതിനെക്കുറിച്ചോ ഒരു ഗണിതശാസ്ത്ര ആശയം നേടാൻ ശ്രമിക്കാം കൂടാതെ ഇത് ചെയ്യേണ്ട ഇന്റർമീഡിയറ്റ് സമ്മർദ്ദത്തിൽ കൃത്യമായി തിരിച്ചറിയാനും ശ്രമിക്കാം കാരണം പി 1 പി 2 എന്നിവ രണ്ട് അങ്ങേയറ്റത്തെ മർദ്ദമാണ് കൂടാതെ ഈ ഇന്റർകൂളിംഗ് ചെയ്യുന്ന ഇടത്തരം മർദ്ദമാണ് പിഐ എന്ന് നമുക്ക് പറയാം അതിനാൽ input ദ്യോഗിക ഇൻപുട്ട് ആവശ്യകതയിലെ പരമാവധി ലാഭം PI തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് നോക്കാം അതിനായി ആദ്യം ഒരൊറ്റ സ്റ്റേജ് കംപ്രഷൻ വിശകലനം ചെയ്യണം അതിനാൽ തുടക്കത്തിൽ നമ്മൾ ഒരൊറ്റ സ്റ്റേജ് കംപ്രഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് നിങ്ങൾ പോയിന്റ് 1 മുതൽ പോയിന്റ് സി വരെ പോകുന്നു മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ കംപ്രസ്സറിനുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത പോയിന്റ് 1 മുതൽ ∫vdP ന് തുല്യമാണ് ഈ കേസിൽ സി ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അനുമാനിക്കണം ഒന്നാമതായി നമ്മൾ ഐസന്റ്രോപിക് കംപ്രഷൻ അനുമാനിക്കാൻ പോകുന്നു രണ്ടാമതായി നമ്മൾ പ്രവർത്തന മാദ്ധ്യമമായി ഒരു അനുയോജ്യമായ വാതകം ഏറ്റെടുക്കാൻ പോകുന്നു അനുയോജ്യമായ വാതകം എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും Pv RT or PV mRT അതുപോലെ ഫോർ ഐസൻട്രോപിക് കംപ്രഷൻ നമുക്ക് ആപേക്ഷികത ഉപയോഗപ്പെടുത്താം Pvn constant വാസ്തവത്തിൽ ഐസന്റ്രോപിക്ക് പകരം നമുക്ക് ഒരു പോളിട്രോപിക് രീതിയിൽ ചെയ്യാം അതിനാൽ നമ്മൾ സൂചിക n ഇടുന്നു ഇത് ഐസന്റ്രോപിക് ആണെങ്കിൽ n ഉപയോഗിച്ച് k ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ മൊത്തം വർക്ക് ട്ട്പുട്ട് ലഭിക്കാൻ ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തിന്റെ അനുയോജ്യമായ വാതക സമവാക്യം ഉപയോഗിക്കാം അതിലൂടെ ഈ ഐസന്റ്രോപിക് പ്രക്രിയയെ ആപേക്ഷികത ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാൻ കഴിയും കംപ്രസ്സറിനായുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകതയ്ക്കായി എക്സ്പ്രഷനിൽ V യുടെ ഈ മൂല്യം മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ സംയോജനം നടത്തുകയാണെങ്കിൽ അതിനാൽ നമ്മൾക്ക് ഇവയുണ്ട് സംയോജന പരിധി 1 മുതൽ C വരെയാണ് നിങ്ങൾ ഇത് ഇപ്പോൾ സമവാക്യവുമായി സംയോജിപ്പിക്കുകയാണെങ്കിൽ 𝑃𝑉𝑛 𝑦 അപ്പോൾ ഇത് ഇതുപോലെ വരും ഇപ്പോൾ നമുക്ക് അനുയോജ്യമായ സംസ്ഥാനത്തിന്റെ അനുയോജ്യമായ വാതക സമവാക്യം ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ സമവാക്യത്തിന്റെ അനുയോജ്യമായ വാതക രൂപമായി മാറുന്നു എന്നിരുന്നാലും നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല പകരം നമ്മൾ ഒരു പ്രത്യേക രൂപത്തിൽ ഉപയോഗിക്കാൻ പോകുന്നു പിന്തുടരുന്നു സംസ്ഥാനത്തിന്റെ അനുയോജ്യമായ വാതക സമവാക്യത്തിലേക്ക് മടങ്ങുക അതിനാൽ ഇത് ഒരൊറ്റ സ്റ്റേജ് കംപ്രഷനുള്ളതാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷനായി നമ്മൾ നിങ്ങളിലേക്ക് പോകാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ പോയിന്റ് 1 മുതൽ എ വരെയും പിന്നീട് ബി മുതൽ ഡി വരെ ടിബിയും ടി 1 ഉം തുല്യമാണെന്ന് കരുതുന്നു അതിനാൽ ഘട്ടം എ 1 എയ്ക്കുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത രണ്ടാം ഘട്ട ബി മുതൽ ഡി വരെയുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത ഇതിന് തുല്യമായിരിക്കണം ഇവിടെ നമ്മൾ ഐസെൻട്രോപിക് എന്നതിനുപകരം ഐസെൻട്രോപിക് അല്ലെങ്കിൽ പോളിട്രോപിക് ആണെന്ന് കരുതുന്നത് തുടരുകയാണ് ഇതിനെ പോളിട്രോപിക് കംപ്രഷൻ എന്നും സംസ്ഥാനത്തിന്റെ അനുയോജ്യമായ വാതക സമവാക്യം എന്നും വിളിക്കണം ഇപ്പോൾ V യുമായി പ്രവർത്തിക്കുന്നത് വളരെ സങ്കീർണ്ണമാണ് അതിനാൽ VA V1 VD VB എന്നിവയുമായി പ്രവർത്തിക്കുന്നതിനുപകരം നമ്മൾ എല്ലാം സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പരിവർത്തനം ചെയ്യാൻ പോകുന്നു കൂടാതെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് 𝑃𝐴 𝑃𝐵 𝑃𝐼 ഇപ്പോൾ ഇവിടെ നമ്മൾ കംപ്രഷന്റെ ആദ്യ ഘട്ടത്തിനായി റിലേഷൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ കംപ്രഷന്റെ രണ്ടാം ഘട്ടത്തിനും നമ്മൾക്ക് ഈ ബന്ധമുണ്ട് മുകളിലുള്ള ബന്ധങ്ങൾ പ്രയോഗിക്കുമ്പോൾ നെറ്റ് കംപ്രസ്സർ വർക്ക് ആവശ്യകത ഇപ്പോൾ പുറത്തുവരുന്നു നമ്മളുടെ വിശകലനം ലളിതമാക്കുന്നതിന് n ഉം n ഉം പരസ്പരം തുല്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്ന മറ്റൊരു അനുമാനം നമ്മൾ ഇടുന്നു അന്തിമ അനുമാനമായി ടി 1 ടിബി എന്നിവ പരസ്പരം തുല്യമാണെന്ന് ഒരു തികഞ്ഞ ഇന്റർകൂളിംഗ് നമ്മൾ അനുമാനിച്ചു അതിനാൽ മുകളിലുള്ള പദപ്രയോഗം നമുക്ക് ഇങ്ങനെ എഴുതാം നമ്മൾ ഈ ഇന്റർകൂളിംഗ് ഇട്ടതിന് ശേഷം കംപ്രസ്സറിന് ആവശ്യമായ വർക്ക് ഇൻപുട്ട് ഇതാണ് അതിനാൽ ഒരു പ്രാവശ്യം പി 1 പി 2 എന്നിവ അംഗീകരിക്കേണ്ടിവരുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അത് പ്രാരംഭ മർദ്ദ നിലയും അന്തിമ മർദ്ദ നിലയും പി 1 ടി 1 എന്നിവയുള്ള പ്രാരംഭ സംസ്ഥാന പോയിന്റുമാണ് അതിനുശേഷം ഏത് പിഐയ്ക്കാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ആവശ്യമുള്ളത് വർക്ക് ഇൻപുട്ട് അതിനായി നമ്മൾ ഇത് ഒപ്റ്റിമൈസ് ചെയ്യണം അതായത് നമ്മൾ ഇതിനെ വേർതിരിക്കേണ്ടതുണ്ട് അതിനാൽ സ്ഥിരമായ പദങ്ങൾ നീക്കംചെയ്ത് അത് n പുറത്ത് എടുക്കുക അതിനാൽ നമ്മൾക്ക് വളരെ ലളിതമാണ് യഥാർത്ഥത്തിൽ രൂപം അതായത് ഇന്റർമീഡിയറ്റ് മർദ്ദം രണ്ട് അങ്ങേയറ്റത്തെ മർദ്ദത്തിന്റെ ജ്യാമിതീയ മാധ്യമം മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും സാധ്യമായ ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ട് ആവശ്യകത ലഭിക്കുന്നതിന് രണ്ട് ഘട്ടങ്ങളിലുമുള്ള സമ്മർദ്ദ അനുപാതം പരസ്പരം തുല്യമായിരിക്കണം അവ തുല്യമാണെങ്കിൽ അനുബന്ധ സമ്മർദ്ദ അനുപാതത്തിനായോ അല്ലെങ്കിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ട്ട്പുട്ടിനായോ മൂല്യങ്ങൾ നേടുന്നതിനായി കംപ്രസ്സർ വർക്കിനായുള്ള എക്സ്പ്രഷനിലേക്ക് ഇത് തിരികെ നൽകാം ഇത് മിനിമ അല്ലെങ്കിൽ മാക്സിമയാണോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കൽ കൂടി വേർതിരിച്ചറിയാനും രണ്ടാമത്തെ ഡെറിവേറ്റീവ് പുട്ടിംഗിന്റെ അടയാളം പരിശോധിക്കാനും കഴിയും ഇത് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ട് ആവശ്യകതയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും അതിനാൽ കംപ്രസ്സർ ഇന്റർകൂളിംഗിനൊപ്പം മൾട്ടി സ്റ്റേജിംഗിന് വിധേയമാകുമ്പോൾ കംപ്രഷന്റെ രണ്ട് ഘട്ടങ്ങൾക്കും സമാനമായ സമ്മർദ്ദ അനുപാതം നൽകേണ്ടതാണ് മാത്രമല്ല ഇതിന് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ഇൻപുട്ട് ആവശ്യകത നമ്മൾക്ക് ആവശ്യമാണെന്ന് ഉറപ്പാക്കാനും കഴിയും രണ്ടിൽ കൂടുതൽ ഘട്ടങ്ങളുണ്ടെങ്കിൽ രണ്ടിനുപകരം നിരവധി ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ വീണ്ടും അതേ തത്ത്വം ബാധകമാണ് നമുക്ക് P1 മർദ്ദത്തിൽ ആരംഭിക്കുന്ന മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് കരുതുക നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് Pi1 ഉണ്ട് അത് രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്റർമീഡിയറ്റ് Pi2 ലേക്ക് പോകുന്നു ഒടുവിൽ P2 ലേക്ക് പോകുന്നു തുടർന്ന് വീണ്ടും എല്ലാ ഘട്ടങ്ങൾക്കും തുല്യമായിരിക്കാനുള്ള അനുപാത അനുപാതം അതിനാൽ സമ്മർദ്ദ അനുപാതം എല്ലാ ഘട്ടങ്ങൾക്കും തുല്യമായിരിക്കണം തെളിയിക്കാതെ തന്നെ ഇത് തികഞ്ഞ ഇന്റർകൂളിംഗ് അല്ലെങ്കിലും n ഉം n ഉം തുല്യമാണെങ്കിൽ അത് തുല്യമാകുമെന്ന് എനിക്ക് കാണിക്കാൻ കഴിയും അതിനാൽ ഇത് തെളിയിക്കാൻ ഞാൻ നിങ്ങളിലേക്ക് പോകുന്നു ഇവിടെ ഈ ടി 1 ഉം ടിബിയും തുല്യമാണ് നമ്മൾ അത് പുറത്തെടുത്തു അല്ലെങ്കിൽ ഈ അനുപാതവും ചിത്രത്തിലേക്ക് വരും അതിനാൽ സിസ്റ്റത്തിന് രണ്ട് ഘട്ട കംപ്രഷനും അതിനിടയിൽ ഒരു ഇന്റർകൂളറും ഉള്ളപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ആദ്യം ഒരു എൽപി കംപ്രഷൻ ഘട്ടമാണ് തുടർന്ന് അതിന്റെ താപനില ഇന്റർകൂളറിൽ കുറയ്ക്കുന്നു തുടർന്ന് അത് എച്ച്പി കംപ്രഷൻ ഘട്ടത്തിലേക്ക് പോകുന്നു തുടർന്ന് അത് ജ്വലന അറയിലേക്ക് പോകുന്നു അതിനാൽ 1 2 എന്നത് Ts തലം 2s പ്രതിനിധീകരിക്കുന്നു LP കംപ്രഷന് അനുയോജ്യമായ സാഹചര്യം പ്രായോഗികമായി ഇത് പോയിന്റ് 2 ലേക്ക് പോകുന്നു പിന്നീട് അത് പോയിന്റ് 3 ലേക്ക് താഴുന്നു T1 T3 എന്നിവ അവരുടെ അനുയോജ്യമായ സാഹചര്യത്തിൽ തുല്യമായിരിക്കണം പക്ഷേ പ്രായോഗികമായി T3 ടി 1 പോലെ കുറവായിരിക്കരുത് അതിനാൽ മാറ്റാൻ കഴിയാത്തതിനാൽ ടി 3 മുതൽ ടി 4 വരെ പോകുന്ന കംപ്രഷന്റെ രണ്ടാം ഘട്ടം അവിടെ നിന്ന് നമുക്ക് ഉണ്ട് പോയിന്റ് 4 മുതൽ 5 വരെ ചൂട് ചേർക്കൽ പ്രക്രിയയും തുടർന്ന് ടർബൈനിലെ വികാസവും നമുക്ക് ഉണ്ട് ഇവിടെ ഒരൊറ്റ സ്റ്റേജ് കംപ്രഷനായി പോകുന്നുവെങ്കിൽ പോയിന്റ് എ അല്ലെങ്കിൽ അസ് പ്രതിനിധീകരിക്കുന്നു അനുയോജ്യമായ സാഹചര്യത്തിൽ പോയിന്റ് എസിൽ അവസാനിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ പോയിന്റ് എയിൽ അവസാനിക്കുമായിരുന്നു അതിനാൽ ഇന്റർകൂളിംഗ് ഇല്ലെങ്കിൽ ഇല്ല മൾട്ടിസ്റ്റേജിംഗ് അപ്പോൾ കംപ്രഷൻ ടി 1 മുതൽ ടിഎ വരെ ആയിരിക്കും എന്നാൽ മൾട്ടിസ്റ്റേജിംഗ് ഉപയോഗിച്ച് കംപ്രഷൻ ആദ്യം 1 മുതൽ 2 വരെയും പിന്നീട് 3 മുതൽ 4 വരെയുമാണ് തുടർന്ന് ഈ ഡയഗ്രാമിനെ പരാമർശിച്ച് മൊത്തം കംപ്രഷൻ വർക്ക് ആവശ്യകതകൾ ഇന്റർകൂളിംഗ് ചെയ്യാതെ ഇന്റർകൂളിംഗ് ഇല്ലാത്തപ്പോൾ കംപ്രഷൻ വർക്ക് ആവശ്യകത ഇതായിരിക്കും 𝑤𝑐 𝑤𝑖𝑡ℎ𝑜𝑢𝑡 𝐼𝐶 𝑐𝑝 𝑇𝐴 − 𝑇1 ഈ കേസിൽ ഇന്റർകൂളിംഗിനൊപ്പം കംപ്രഷൻ വർക്ക് ആവശ്യകതയാണ് 𝑤𝑐 𝑤𝑖𝑡 ℎ 𝐼𝐶 𝑐𝑝 𝑇2 − 𝑇1 𝑐𝑝 𝑇4 − 𝑇3 ആദ്യത്തേത് വർക്ക് ഇന്റർകൂൾ ചെയ്യാതെ നമ്മൾ ഇപ്രകാരം എഴുതുകയാണെങ്കിൽ ശുപാർശ ചെയ്യുന്നു 𝑤𝑐 𝑤𝑖𝑡 ℎ𝑜𝑢𝑡 𝐼𝐶 𝑐𝑝 𝑇2 − 𝑇1 𝑐𝑝 𝑇𝐴 − 𝑇2 ജോലി ആവശ്യകതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർകൂളിംഗിനൊപ്പം ജോലി ആവശ്യകത കുറയും ഇത് ചെയ്യുമ്പോൾ മാത്രം ഇന്റർകൂളിംഗ് ഇല്ലാതെ TA − T2 T4 − T3 അത് ശരിയാണ് കാരണം Ts ഡയഗ്രാമിൽ ഈ വരികളിൽ സ്ഥിരമായ മർദ്ദം വ്യതിചലിക്കുന്നു നമ്മൾ വലത്തേക്ക് നീങ്ങുമ്പോൾ പരസ്പരം നമ്മൾ ഉയർന്ന എൻട്രോപ്പിയിലേക്ക് നീങ്ങുമ്പോൾ ഈ വരികൾ പരസ്പരം അകന്നുപോകുന്നു അതിനാൽ ടിഎ T2 എല്ലായ്പ്പോഴും നേക്കാൾ വലുതായിരിക്കണം അതിനാൽ ഇത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കുറഞ്ഞ ജോലി നൽകുന്നു ഇന്റർകൂളിംഗ് ഉള്ളപ്പോൾ ഇൻപുട്ട് ആവശ്യകത എന്നിരുന്നാലും ചൂട് എന്താണെന്ന് പരിശോധിക്കുക ഇൻപുട്ട് ആവശ്യകത നിങ്ങളുടെ ചൂട് ഇൻപുട്ട് ആവശ്യകതയെ ഇന്റർകൂൾ ചെയ്യാതെ 𝑞𝑤𝑖𝑡 ℎ𝑜𝑢𝑡 𝐼𝐶 𝑐𝑝 𝑇5 − 𝑇𝐴 എന്നിരുന്നാലും ഇന്റർകൂളിംഗ് ഉണ്ടാകുമ്പോൾ 𝑞𝑤𝑖𝑡 ℎ 𝐼𝐶 𝑐𝑝 𝑇5 − 𝑇4 അതിനാൽ ഇത് തീർച്ചയായും വളരെ വലുതാണ് മൊത്തം താപ ഇൻപുട്ട് ആവശ്യകത തീർച്ചയായും വളരെ വലുതാണ് അതിനാൽ ഇന്റർകൂളിംഗിന്റെ പ്രഭാവം കംപ്രഷൻ ജോലിയുടെ കുറവാണ് ടർബൈൻ ഭാഗം അതേപടി നിലനിൽക്കുന്നു അതിനാൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ടിൽ വർദ്ധനവുണ്ടാകും തുടർന്ന് നമ്മൾക്ക് വർക്ക് അനുപാതത്തിൽ വർദ്ധനവും കുറവും ഉണ്ട് ബാക്ക് വർക്ക് അനുപാതത്തിൽ എന്നിരുന്നാലും കാര്യക്ഷമതയ്ക്കായി നമ്മൾക്ക് അഭിപ്രായമിടാൻ കഴിയില്ല നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ താപ ഇൻപുട്ട് ആവശ്യകതയും ഒരേസമയം വർദ്ധിക്കുന്നു വാസ്തവത്തിൽ നമ്മൾക്ക് ചില കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയുമെങ്കിൽ കാര്യക്ഷമത യഥാർത്ഥത്തിൽ കുറയുന്നുവെന്ന് കാണിക്കുന്നു എന്നിരുന്നാലും വർക്ക് അനുപാതം വർദ്ധിപ്പിക്കുന്ന വർക്ക് അനുപാതം കുറയുന്നു അതിനാൽ output ട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഇന്റർകൂളിംഗ് നമ്മളെ സഹായിക്കുന്നു പക്ഷേ കാര്യക്ഷമത കാഴ്ചപ്പാടിൽ നിന്ന് ഇത് സഹായിച്ചേക്കില്ല ഇന്റർകൂളിംഗിന് വിപരീതം വീണ്ടും ചൂടാക്കലിനൊപ്പം മൾട്ടി സ്റ്റേജ് വിപുലീകരണമാണ് നിർദ്ദിഷ്ട വോളിയം വർദ്ധിപ്പിക്കുന്നതിന് ഒരേ കാരണം കാരണം നമുക്ക് ടർബൈനുകളെ 2 ഘട്ടങ്ങളായി വേർതിരിക്കാം നിങ്ങൾ ഇവിടെ കാണിച്ച പവർ ടർബൈനിന് സമാനമാണ് ഇത് നോക്കൂ വിപുലീകരണത്തിന്റെ എച്ച്പി ഘട്ടം കംപ്രസ്സറിന്റെ അതേ ഷാഫ്റ്റിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ എൽപി ഘട്ടം പ്രത്യേകമാണ് അത് മ mounted ണ്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ജനറേറ്ററിന്റെ അതേ ഷാഫ്റ്റിലാണ് പവർ ടർബൈനുമായുള്ള വ്യത്യാസം ഇവിടെ ടർബൈനിന്റെ രണ്ട് ഘട്ടങ്ങൾക്കിടയിൽ വീണ്ടും ചൂടാക്കാനുള്ള ഒരു ഘട്ടമുണ്ട് 3 മുതൽ 4 വരെയുള്ള ഡയഗ്രം നോക്കുക എച്ച്പി വിപുലീകരണ ഘട്ടത്തെയും പോയിന്റ് എ 4 പോയിന്റിലേക്ക് തുടരുന്നതിനുപകരം പോയിന്റിനെയും സൂചിപ്പിക്കുന്നു നമ്മൾ പോയിന്റ് നമ്പർ 5 ലേക്ക് പോകുന്നു ഇതിനാണ് വീണ്ടും ചൂടാക്കൽ ഘട്ടം അതിനാൽ ഈ 4 മുതൽ 5 വരെ വീണ്ടും ചൂടാക്കൽ ഘട്ടമാണ് 5 മുതൽ 6 വരെ വിപുലീകരണത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് തീർച്ചയായും ഉയർന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നു ഈ പി 1 ആണെങ്കിൽ ഇത് പി 2 ആണെന്നും ഇത് ഇന്റർമീഡിയറ്റ് മർദ്ദം പൈ പോലെയാണെന്നും ഈ ഇന്റർമീഡിയറ്റ് മർദ്ദത്തിന്റെ ഒപ്റ്റിമൽ മൂല്യം തിരിച്ചറിയാൻ ഇവിടെ നമുക്ക് വീണ്ടും കണക്കുകൂട്ടൽ നടത്താം ഈ സാഹചര്യത്തിലും ഈ സമ്മർദ്ദ അനുപാതങ്ങൾ തുല്യമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ടർബൈനിൽ നിന്നുള്ള പരമാവധി വർക്ക് ഔട്ട്പുട്ട് ഇതാണ് 𝑤𝐻𝑃𝑡 𝑐𝑝 𝑇3 − 𝑇4 ടർബൈൻ വർക്ക് ട്ട്പുട്ടിന്റെ പരമാവധി മൂല്യം നമുക്ക് ലഭിക്കും ഈ സാഹചര്യത്തിൽ എച്ച്പി ടർബൈൻ നിർമ്മിക്കുന്ന ജോലി ഇതിന് തുല്യമായിരിക്കുംഒരേ ഷാഫ്റ്റിൽ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവ രണ്ടും തുല്യമായിരിക്കണം അതിനാൽ നിങ്ങളുടെ വല വർക്ക് ഔട്ട്പുട്ട് ഇതിന് തുല്യമായിരിക്കും ഇത് തീർച്ചയായും നെറ്റ് വർക്ക് ഇൻപുട്ട് ആവശ്യകതയിൽ വർദ്ധനവ് നൽകുന്നു തുടർന്ന് വർക്ക് അനുപാതം ബാക്ക് വർക്ക് അനുപാതം വർദ്ധിപ്പിക്കുകയും കുറയുകയും ചെയ്യുന്നു എന്നാൽ നോക്കൂ മൊത്തം താപ ഇൻപുട്ട് ആവശ്യകത വീണ്ടും ചൂടാക്കാതെ മൊത്തം താപ ഇൻപുട്ട് ആവശ്യകത ആയിരിക്കും 𝑞𝑤𝑖𝑡 ℎ𝑜𝑢𝑡 𝑟𝑒ℎ𝑒𝑎𝑡 𝑐𝑝 𝑇3 − 𝑇2 സിസ്റ്റത്തിൽ വീണ്ടും ചൂടാക്കുമ്പോൾ ചൂട് ഇൻപുട്ട് ആവശ്യമാണ് 𝑞𝑤𝑖𝑡 ℎ 𝑟𝑒ℎ𝑒𝑎𝑡 𝑐𝑝 𝑇3 − 𝑇2 𝑐𝑝 𝑇5 − 𝑇4 ജ്വലനത്തിലെ താപ ഇൻപുട്ട് കാരണം മുകളിലുള്ള പദപ്രയോഗത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോഴും അവിടെയുണ്ട്അറ പക്ഷേ വീണ്ടും ചൂടാക്കാനുള്ള ഭാഗമുണ്ട് അവിടെ രണ്ടാമത്തെ ജ്വലന അറയുണ്ട് രണ്ടാം ഭാഗം കൂടി ചേർക്കേണ്ടതുണ്ട് അതായത് 𝑐𝑝 𝑇5 − 𝑇4 അതിനാൽ നിങ്ങളുടെ ക്വിൻ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾക്ക് ഉറപ്പില്ല സാധാരണ കാര്യക്ഷമത വീണ്ടും കുറയുന്നു കാര്യക്ഷമത വർദ്ധിച്ചേക്കാം നൽകിയ റീഹീറ്റിന്റെ അളവിനെ ആശ്രയിച്ച് കാര്യക്ഷമത കുറയുന്നു അനുയോജ്യമായത് ടി 3 ടി 5 എന്നിവ തുല്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രായോഗികമായി ഞാൻ ടി 3 വരെ എത്തുന്നില്ലെങ്കിൽ അത് അല്പം കുറവായിരിക്കാം കൂടാതെ നമ്മൾ നൽകിയ റീഹീറ്റിന്റെ അളവ് അനുസരിച്ച് കാര്യക്ഷമത വർദ്ധിച്ചേക്കാം സാധാരണയായി നമുക്ക് വീണ്ടും കാര്യക്ഷമത കുറയുന്നു അതിനാൽ ഇന്റർകൂളിംഗും റീഹീറ്റിംഗും നെറ്റ്വർക്ക് ഔട്ട്പുട്ടിലും വർക്ക് അനുപാതത്തിലും ഗണ്യമായ വർദ്ധനവിന് കാരണമാകുമെങ്കിലും ചൂട് ഇൻപുട്ട് ആവശ്യകത രണ്ട് കേസുകളിലും വർദ്ധിക്കുന്നു അതിനാൽ ഗ്യാസ് ടർബൈൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയെ ബാധിച്ചേക്കാം വീണ്ടും ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വീണ്ടും ചൂടാക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ വിപുലീകരണത്തിന്റെ അവസാനത്തെ താപനില ടിഎ ആയിരിക്കും എന്നിരുന്നാലും വികാസത്തിന്റെ അവസാനം താപനില വീണ്ടും ചൂടാക്കുമ്പോൾ T6 ആണ് ടി 6 തീർച്ചയായും ഈ ടിഎയേക്കാൾ വളരെ വലുതാണ് അതിനാൽ എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ താപനില വീണ്ടും ചൂടാക്കുന്നതിനൊപ്പം വളരെ വലുതാണ് മാത്രമല്ല ഈ ഉയർന്ന താപനില ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗം നാം കണ്ടെത്തേണ്ടതുണ്ട് പുനരുജ്ജീവനത്തിൽ അതാണ് ചെയ്യുന്നത് അത് എക്സോസ്റ്റ് ചൂട് ഉപയോഗിക്കാനും അതുവഴി കുറയ്ക്കാനും അനുവദിക്കുന്നു മൊത്തം താപ ഇൻപുട്ട് ആവശ്യകത കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു പുനരുജ്ജീവനത്തെക്കുറിച്ച് അടുത്ത പ്രഭാഷണത്തിൽ നാം ചർച്ചചെയ്യും അത് ഇന്റർകൂളിംഗിനും വീണ്ടും ചൂടാക്കലിനുമായി നമ്മൾ സൂക്ഷിക്കുന്നു നിങ്ങൾ ഈ ആശയം ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും നമ്മൾ നടത്തിയ ഈ ബന്ധങ്ങളെല്ലാം വികസിപ്പിക്കാൻ ശ്രമിക്കുക കംപ്രഷൻ ഭാഗങ്ങൾക്കോ മൾട്ടിസ്റ്റേജ് കംപ്രഷനോടുകൂടിയ ഇന്റർകൂളിംഗിനോ വേണ്ടി നമ്മൾ ഒപ്റ്റിമൽ പ്രഷർ റേഷ്യോ നേടി വീണ്ടും ചൂടാക്കിക്കൊണ്ട് ഈ മൾട്ടിസ്റ്റേജ് വിപുലീകരണത്തിനായി നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക T5 ന് തുല്യമായ T3 എന്ന ഒരു തികഞ്ഞ റീഹീറ്റിംഗ് സമ്മർദ്ദ അനുപാതം രണ്ട് കേസുകളിലും തുല്യമായിരിക്കണം എന്ന് തെളിയിക്കാൻ ശ്രമിക്കുക അതിനാൽ ഇപ്പോൾ നമുക്ക് ദിവസം അവസാനിപ്പിക്കാൻ കഴിയും അവിടെ ഒരു സംഖ്യാ ഉദാഹരണത്തിലൂടെ ഐസന്റ്രോപിക് കാര്യക്ഷമതയുടെ പങ്കിനെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു രണ്ട് പ്രത്യേക ടർബൈൻ ഉള്ള ഒരു പവർ ടർബൈൻ എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വാണിജ്യ പവർ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ കംപ്രസ്സറിനെയും മറ്റുള്ളവയെയും ഓടിക്കാൻ ആഗ്രഹിക്കുന്നു ഗ്യാസ് ടർബൈനിന്റെ സാധ്യമായ രണ്ട് മോഡുകളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു വർക്ക് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ഗ്യാസ് ടർബൈൻ സൈക്കിൾ പരിഷ്കരണം ഒന്ന് ഇന്റർകൂളിംഗിനൊപ്പം മൾട്ടിസ്റ്റേജ് കംപ്രഷൻ മറ്റൊന്ന് റീഹീറ്റിംഗിനൊപ്പം മൾട്ടിസ്റ്റേജ് വിപുലീകരണം മൂന്നാമത്തെ ഓപ്ഷൻ വർക്ക് അനുപാതത്തെ അത്രയധികം ബാധിക്കാനിടയില്ല പക്ഷേ തീർച്ചയായും അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പുനരുജ്ജീവനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ അതുവരെ നമ്മൾ ഇവിടെ ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക മൾട്ടിസ്റ്റേജ് കംപ്രഷനും മൾട്ടിസ്റ്റേജ് വിപുലീകരണത്തിനുമായി എക്സ്പ്രഷനുകളോ ഗണിതശാസ്ത്രപരമായ വ്യുൽപ്പന്നങ്ങളോ സ്വന്തമായി വികസിപ്പിക്കാൻ ശ്രമിക്കുക